ഞാൻ എന്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു ഒരു വ്യക്തി കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇത് പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ ഇത് മനുഷ്യ മനസ്സിന്റെ പോസിറ്റീവ് ഫ്രെയിമാണ് നിങ്ങൾ മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് എനിക്കറിയാം ക്രിയാത്മകവും ശുഭാപ്തിവിശ്വാസവുമുള്ള ഒരു വ്യക്തി ഇതും ശുഭാപ്തിവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്റെ വിഷമകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അറിയാമെന്നു പറയുന്ന ഒരാളാണെകിൽ ഒരു വ്യക്തിയുടെ സമീപനം ഇപ്രകാരമായിരിക്കും എനിക്കറിയാം എനിക്ക് കഴിയും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്നു അതിനാൽ ഇവ ശുഭപ്രതീക്ഷയുടെ പ്രതിഫലനമാണ് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല കൃത്യമായ ഉറവിടമോ പരിഹാരങ്ങളോ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതെല്ലം നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയോ ശുഭാപ്തിവിശ്വാസത്തിന്റെയോ പ്രതിഫലനമാണ് കാണിക്കുന്നത് ഇത്തരം കാഴ്ചപ്പാട് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടാണ് എന്നാൽ ഇവിടെ ശുഭാപ്തിവിശ്വാസം എന്നാൽ നിങ്ങളുടെ ഭാവിയെ സമീപിക്കാനുള്ള പ്രവണത എന്നാണ് വിവക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു നല്ല പ്രതീക്ഷ പുലർത്തുക എന്നത് നിങ്ങളുടെ ശുഭാപ്തിവിശ്വാസവും തിളക്കമാർന്ന പ്രതീക്ഷയുമാണ് കാര്യങ്ങൾ സാധാരണയായി നിങ്ങൾക്കിണങ്ങുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനാലാണ് നിങ്ങളുടെ ജോലിയിൽ നിന്ന് എന്തെങ്കിലും മികച്ചത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മോശം ഇടവേളകൾ കാരണം ജീവിതത്തിൽ നിരന്തരം നിരാശനാണ് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു ഒരുപാട് ഖേദിക്കുന്നു ഞാൻ വിഷമകരമായ സമയങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഇത് നെഗറ്റീവ് ഇനങ്ങളാണ് ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല അതിനാൽ ഇത് ശുഭാപ്തിവിശ്വാസം കൊണ്ടുവന്നേക്കില്ല അത് അശുഭാപ്തിവിശ്വാസം കൊണ്ടുവന്നേക്കാം അതിനാലാണ് ഇവ പലപ്പോഴും സാഹചര്യപരമെന്ന് ആളുകൾ പറയുന്നത് ശുഭാപ്തിവിശ്വാസം അശുഭാപ്തിവിശ്വാസം എന്നിവ സാഹചര്യപരമായ കാര്യമാണ് സംഭവിക്കുന്നതിനെ ആശ്രയിച്ചു ശുഭാപ്തിവിശ്വാസിയായ ഞാൻ ചിലപ്പോൾ അശുഭാപ്തിവിശ്വാസിയാകാം അതിനാൽ ജീവിതത്തിൽ ഒരാൾ എന്തായി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ എന്താണ് നേടിയതെന്ന് കൃത്യമായി സൂചിപ്പിക്കേണ്ടി വരും നല്ല പ്രവൃത്തികൾ ശരിയാ രീതിയിൽ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു നല്ല തൊഴിലാളി നിരാശനാകുകയും ചിലപ്പോൾ ജോലി വരെ ഉപേക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്കു കൈവന്നില്ലായെങ്കിൽ നിങ്ങളുടെ ദിശാബോധം തന്നെ അശുഭാപ്തിവിശ്വാസത്തിലേക്ക് വളരും എന്ന് പറയുന്നത് റോട്ടേഴ്സ് സംസാരിക്കുന്ന ഈ അശുഭാപ്തിവിശ്വാസം ബാഹ്യ നിയന്ത്രണത്തിന്റെ ഫലമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഭാഗ്യത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും എന്റെ ഭാഗ്യം നല്ലതല്ല അതിനാലാണ് എനിക്ക് നിരാശ തോന്നുന്നത് ഇതിനെ അറിഞ്ഞ അശുഭാപ്തിവിശ്വാസം എന്നും അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ ആളുകൾ എല്ലായ്പോഴും ശുഭാപ്തി വിശ്വാസികളല്ല പക്ഷേ അവരുടെ ക്രമാനുഗതമായ അനുഭവവും പുറം ലോകത്തോടുള്ള സമ്പർക്കവും വഴി അവർ എങ്ങനെ ശുഭാപ്തി വിശ്വാസികളാകാം എന്ന് പഠിക്കുന്നു അവർ എങ്ങനെ പ്രത്യാശ പുലർത്താം എന്ന് പഠിക്കുന്നു കാരണം ക്ഷമ അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നുവെന്നും അവരുടെ കഠിനാധ്വാനം ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുന്നുവെന്നും നിസംശയം നിരീക്ഷിക്കാവുന്നതാണ് ആ ശുഭാപ്തിവിശ്വാസം അതിനാൽ നിങ്ങൾക്കുള്ളിൽ ക്ഷമയും നന്മയും വളർത്തും ജീവിതത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ആവർത്തിച്ച് നേരിടുമ്പോൾ അവർ ക്രമേണ അശുഭാപ്തിവിശ്വാസത്തിലേക്ക് നീങ്ങുകയും അവരുടെ വിധിയെ പഴിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് മോശമാകാൻ പോകുന്നത് എന്നാൽ ഇത് നിങ്ങൾക്ക് കുറച്ച് മാത്രമേ ജീവിതത്തിൽ തരുകയുള്ളൂ നിങ്ങൾ മുന്നോട്ട് പോയാൽ മോശം വിധി കാരണം എന്ന് പറഞ്ഞു നിങൾ നിരന്തരം നിരാശരാകും നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുന്നു അതെ നിങ്ങളേക്കുറിച്ചാണ് നിങ്ങൾ സ്വയം പ്രശംസിക്കുന്നത് പഠനത്തിനുള്ള അവസരങ്ങളായി ഞാൻ വെല്ലുവിളികളെ കാണുന്നു ഇത് വെല്ലുവിളികളെ അവസരങ്ങളായി ഞാൻ കാണുന്നു എന്ന് തന്നെ ആണ് സമർത്ഥിക്കുന്നത് അതിനാൽ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാണെന്ന് പറയുന്നു വെല്ലുവിളികൾ വരുമ്പോൾ അസ്വസ്ഥരാകേണ്ടതില്ലെന്ന് അവർ പറയുന്നു ഞാനത് ഒരു അവസരമായി സ്വീകരിച്ച് എന്റെ അവസരങ്ങളാക്കി മാറ്റണം സമ്മർദത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഒരു പരിഹാരമാർഗ്ഗം ഞാൻ കണ്ടെത്തും ഇതാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിരോധം ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾ പറയുന്നത് അവർ ശുഭാപ്തി വിശ്വാസികളാകാനും അവരുടെ കാഴ്ചപ്പാട് ഉയർന്നതായിരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ഈ ടെസ്റ്റ് എടുത്ത് നിങ്ങളുടെ സ്കോർ അളക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാലു വരെയാണെങ്കിൽ നിങ്ങൾ മികച്ചത് എന്ന് വിളിക്കുന്ന മികച്ച പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ സ്കോർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണെങ്കിൽ നിങ്ങൾ നിപുണരാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ സ്കോർ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വ്യത്യാസപ്പെടുകയാണെങ്കിൽ അത് ശരാശരിയേക്കാൾ താഴെയാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളുടെ ശുഭാപ്തിവിശ്വാസം ശരാശരിയേക്കാൾ താഴെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അശുഭാപ്തി ശൈലി നിങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തി പൂജ്യത്തിനും പന്ത്രണ്ടിനും ഇടയിലാണെങ്കിൽ അത് ശുഭാപ്തിവിശ്വാസത്തിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് അതിനാൽ വ്യക്തിക്ക് അടിയന്തിര കൌൺസിലിംഗ് ആവശ്യമാണ് ഇതൊരു ജാഗ്രതാ ഘട്ടമാണ് അതിനാൽ ഇയാൾക്ക് വ്യക്തിഗത കൌൺസിലിംഗ് ആവശ്യമാണ് ഒന്നും അസാധ്യമല്ല അസാധ്യമാണ് അസാധ്യമെന്ന് ഒരു ചൊല്ലുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഒരാൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് നന്നാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് ഒരു ഇച്ഛാശക്തിയുള്ളിടത്ത് ഒരു വഴിയുണ്ടെന്ന് ഞങ്ങൾ പലപ്പോഴും പറയുന്നത് അതിനാൽ ഇപ്പോൾ ചില ശ്രമങ്ങളിലൂടെ നമുക്ക് ചില കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയും അതിനാൽ നമ്മൾ സംസാരിക്കുന്ന വൈകാരിക ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ പുനസ്ഥാപനം സംഭവിക്കുന്നു എന്ന മറ്റൊരു ആശയം ഇനി പരിശോധിക്കാം ഇത് ഒരു പ്രധാന കഴിവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇക്യു കഴിവുകൾ ഓരോ വ്യക്തിയിലും പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾ റെസീലിയെൻസ് എന്ന് വിളിക്കുന്നു റെസീലിയെൻസ്ന്റെ കൃത്യമായ അർത്ഥം സമ്മർദ്ദത്തിലും അതിജീവനം എന്നതാണ് നിങ്ങൾ എത്ര വേഗത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുവരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളെ നേരിടാൻ ഒരു വ്യക്തിക്ക് കഴിയാത്തതാണ് എന്നും ഇതിനെ പറയാൻ കഴിയും അതിനാൽ ഒരു വ്യക്തി തന്റെ ഈ ശേഷിയിൽ നല്ലവനാണെങ്കിൽ ജീവിതത്തിലെ ദുഷ്കരമായ സാഹചര്യങ്ങളെ നേരിടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇത് ഒരു ചെറിയ പരീക്ഷണമാണ് ഇത് ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത കൂപ്പർ സവാഫ് Cooper and Sawaf എന്നിവരുടെ ഇക്യു മാപ്പ് സ്കെയിലുകളിൽ നിന്ന് എടുത്തതാണ് ചുവടെ ലിസ്റ്റുചെയ്തിരിക്കുന്ന ഓരോ ഇനത്തിനും കഴിഞ്ഞ ഒരു മാസത്തെക്കുറിച്ച് പ്രസ്താവന നിങ്ങളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഉദ്ദേശ്യത്തെ എത്ര നന്നായി വിവരിക്കുന്നുവെന്ന് ദയവായി ഇവിടെ പറയുക ഉദാഹരണമായി പറയുക നിരാശ തോന്നിയതിന് ശേഷം എനിക്ക് തിരികെ പോകാൻ കഴിയും അപ്പോൾ ഈ പ്രസ്താവന എന്താണ് നിങ്ങളോടു പറയുന്നത് വീണുപോയതിനുശേഷം എനിക്ക് എഴുന്നെല്കുവാൻ കഴിയും സ്കൂളിലെ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യകാലങ്ങളിൽ അവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്ന ആര്ക്കും ഇത് മനസിലാകും കുട്ടി ഒരു വർഷത്തിനുശേഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിനിടയിൽ നടക്കാൻ ശ്രമിക്കുമ്പോൾ ക്രമേണ നന്നായി നടക്കാൻ തുടങ്ങുന്നു പതുക്കെ കുട്ടി വീഴുന്നു കുട്ടി താഴെ വീഴുമ്പോൾ മാതാപിതാക്കൾ കുട്ടിയെ എടുക്കാൻ സാധാരണയായി ചെല്ലുന്നു പക്ഷേ അവർ അത് ചെയ്യാൻ പാടില്ല കാരണം ഇത് ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ സ്വയം വളർച്ചയ്ക്കുള്ള അവസരം നഷ്ടപ്പെടുന്നു കുട്ടിയെ സ്വയം വളരുവാൻ അനുവദിക്കുന്നില്ല അതിനാൽ പാശ്ചാത്യ സമീപനവും പാശ്ചാത്യ പശ്ചാത്തലത്തിൽ കിഴക്കൻ സമീപനവും തമ്മിലുള്ള വ്യത്യാസമാണിത് അവർ എല്ലായ്പ്പോഴും സ്വയം പഠിക്കുന്ന സ്വയം വികസന സ്വയം വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നാൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ അമിതമായ ആശങ്ക പരസ്പരം ആശ്രയിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു ഇത് ഞങ്ങളുടെ കുട്ടിക്ക് ദോഷകരമാകുമെന്ന് നാം പറയുന്നു നാം അവളെ അല്ലെങ്കിൽ അവനെ സഹായിക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടിയെ തനിയെ വളരാൻ ഒരു അവസരവും നൽകുന്നില്ല അതിനാൽ ഇവിടെ പ്രധാന ആശങ്ക അതാണ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തുവരുമെന്ന് കുട്ടി ഒരിക്കലും പഠിക്കുകയില്ല ഞാൻ മനസ് വച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് നിറവേറ്റാൻ കഴിയും ഇത് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ തോത് കാണിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം ഉറപ്പുണ്ടെന്നതിന്റെ പ്രതിഫലനം കൂടിയാണിത് അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് വച്ചാൽ വേണ്ടത് നിറവേറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നത് എന്റെ ജീവിതത്തിലെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മെച്ചപ്പെട്ട അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമായി അതിനാൽ ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല പ്രതീക്ഷയാണ് ഇതുപോലെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ജീവിതം ആഗ്രഹിക്കുന്ന ഇതുപോലെ എടുക്കുന്നുവെങ്കിൽ അവർ സ്കോർ ചെയ്യാനോ ഉയർന്ന തോതിലുള്ള പ്രതിരോധം പ്രകടിപ്പിക്കാനോ സാധ്യതയുണ്ട് ആവശ്യമുള്ളപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എനിക്ക് എളുപ്പമാണെന്ന് ഞാൻ കാണുന്നു നിങ്ങൾക്ക് ധാരാളം ക്ഷമ ഉണ്ട് എന്ന് ഇത് കാണിക്കുന്നു നല്ല ഫലങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണ് അത് ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഒരു വ്യക്തി ഫലങ്ങളെക്കുറിച്ച് വളരെയധികം അക്ഷമനായിരിക്കരുത് കാരണം ഈ ലോകത്ത് ഫലങ്ങൾ നേടുന്നതിൽ അക്ഷമനായ ഏതൊരു വ്യക്തിയും സാധാരണേയെക്കാൾ കൂടുതൽ തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാം അത് എല്ലായ്പ്പോഴും ഒന്നിൽ കൂടുതൽ ശരിയായ ഉത്തരങ്ങളാണ് ഇത് ഒന്നിലധികം പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതിനാലാണ് നിങ്ങൾ ജീവിതത്തിന്റെ ഒന്നിലധികം ബദലുകൾ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങൾ തേടുമ്പോൾ പലപ്പോഴും എന്റെ വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നത് നിങ്ങൾ സാധാരണ ആളുകളേക്കാൾ കൂടുതൽ മികവ് പുലർത്താൻ സാധ്യതയുണ്ട് അവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം കാരണം ഇത് സ്ഥിരോത്സാഹം നൽകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉന്മേഷം പകരും കാരണം കാര്യങ്ങൾ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ആളുകൾ എല്ലായ്പ്പോഴും ഒന്നിലധികം ലക്ഷ്യങ്ങൾ വെക്കുന്നത് ഒരെണ്ണത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽപ്പോലും അവർ മറ്റുള്ളവരിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന ഒന്ന് ഇക്കൂട്ടരുടെ ഒരു നേട്ടമാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് എനിക്കറിയാം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ഡൊമെയ്നുകൾക്ക് ഉചിതമായ വ്യാപ്തി നൽകാൻ നിങ്ങൾക്ക് കഴിവ് നൽകുന്ന മറ്റൊരു കാഴ്ചപ്പാട് കൂടിയാണിത് നാളെക്കായി ഒന്നും മാറ്റിവക്കുന്നില്ല ഞാൻ അതിനാൽ നിങ്ങൾ നീട്ടിവെക്കില്ലെന്ന് ഇത് കാണിക്കുന്നു അതിനാൽ നീട്ടിവെക്കാൻ ഞാൻ ഇല്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ തൃപ്തികരമായ കാലതാമസത്തിന് ഊന്നൽ നൽകുന്നില്ല എന്നാണ് തൃപ്തിപ്പെടുത്തലിന്റെ കാലതാമസം യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് ഇത്തരുണത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളെ പലതവണ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ ഉയർന്ന സ്കോർ നേടുന്ന ഒരു വ്യക്തി കുറഞ്ഞ ഉർജ്ജസ്വലത കാണിക്കാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇതായിരിക്കണം നാം കരുതേണ്ടത് നീട്ടിവെക്കേണ്ട ഒരാളല്ല ഞാൻ അതിനാൽ നീട്ടിവെക്കൽ തൃപ്തിയുടെ കാലതാമസമാണെങ്കിൽ അതിനർത്ഥം ഈ വ്യക്തിക്ക് തൽക്ഷണ തൃപ്തിപ്പെടുത്തലുകൾ ആവശ്യമാണ് അതിനാൽ ഇത് നെഗറ്റീവ് സ്കോർ ചെയ്യണം എന്തെങ്കിലും പരീക്ഷിക്കാൻ ഞാൻ ഭയപ്പെടുന്നു മുമ്പ് പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ശ്രമിക്കാൻ ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഒരു കാര്യം വീണ്ടും ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ക്ഷമ കാണിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിരാശയുണ്ടാക്കുന്നു എന്നാണ് അതിനാൽ ഇത് താഴ്ന്ന നിലയിലുള്ള സ്ഥിരത അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ സൂചന കൂടിയാണ് വിഷമിക്കേണ്ട ചില പ്രശ്നങ്ങൾ ഞാൻ തീരുമാനിക്കുന്നു ചില പ്രശ്നങ്ങൾ വിഷമിക്കേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നുവെന്നും കാണാം അതിനാൽ ചില സമയങ്ങളിൽ ഇത് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ ഈ പ്രത്യേക കഴിവിനെ ആണ് അത് പ്രധാനമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല അതിനാൽ സങ്കീർണ്ണമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ശാന്തത പാലിക്കുന്നു സാഹചര്യത്തിന്റെ രസം അഥവാ നർമ്മം കാണാൻ കഴിയുക ഇത് ജീവിതം എളുപ്പത്തിൽ ആക്കും അതിനാലാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ എല്ലാവരും അത് പറയുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് ആരും പറയാതിരിക്കുകയും ചെയ്യുന്നത് കുറ്റബോധം തോന്നുന്നതിനുപകരം നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ പിഴവുകൾ വരുത്തിയ പിരിമുറുക്കത്തിൽ നിന്നും അഭിവൃദ്ധിപ്പെടണം അതെ തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ ആ തെറ്റ് തുടരുകയാണെങ്കിൽ കുറ്റബോധമില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല അതിനാൽ അത് നിങ്ങളുടെ ജീവിത ഊർജം കുറയ്ക്കുകയും ജീവിതത്തിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നാം പുനസ്ഥാപനം ആഗ്രഹിക്കുകയും അതിനെ നമ്മുടെ ഉള്ളിൽത്തന്നെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ഡൊമെയ്നെ ഇങ്ങനെ വിളിക്കുന്നു ഒരു ഭാവി നേടുന്നതിനായി ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കുന്നു ഇതും പോസിറ്റീവ് ആണ് നല്ല ഭാവി ലഭിക്കാൻ ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തിയെ തൽക്ഷണം നിരസിക്കരുത് അത് വ്യക്തിയുടെ അഭിവൃദ്ധിയുടെ സമീപനമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാലാണ് ഏതെങ്കിലും വസ്തുക്കളോടും സംഭവങ്ങളോടും പ്രതികരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഉപദേശിക്കുന്നത് ചിന്തിക്കുക മൂന്ന് തവണ ഇത് നികൾക്കു മികച്ച സാദ്ധ്യതകൾ നൽകിയേക്കാം എനിക്ക് ഒരു പ്രശ്നം നേരിടുമ്പോൾ അത് പരിഹരിക്കാൻ എന്തുചെയ്യാനാകുമെന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രശ്നം നേരിടുമ്പോൾ ഫോക്കസ് സംബന്ധ്മായി അൽപസമയം ചിന്തിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിൽ ഉൾക്കാഴ്ച നേടുക വിശകലനം ചെയ്യുക അത് മറ്റു സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യലാണ് തുടർന്ന് നിങ്ങൾ ശരിയായ തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി നല്ല അവസാനം കാണും ഇത് വാസ്തവത്തിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ വ്യത്യസ്തമായ ചിന്തയെ സൂചിപ്പിക്കുന്നു അതിനാൽ വിവിധ സാധ്യതകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓരോ സാധ്യതകളുടെയും ശക്തിയും ബലഹീനതയും വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ടാണ് പ്രതിരോധശേഷിയുള്ള ആളുകൾ അവർ പല വശങ്ങളിൽ നിന്ന് ഒന്നിലധികം കോണുകളിൽ പര്യവേക്ഷണം ചെയ്ത് ശരിയായ തരത്തിലുള്ള പരിഹാരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികമായ പരിഹാരത്തിലേക്കോ എത്തിച്ചേരുന്നത് അതിനാൽ ഈ പരിശോധന നിങ്ങൾക്ക് വീണ്ടും നാല് തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകും മുപ്പത്തൊമ്പത് മുതൽ മുപ്പത്തിനാലു വരെയുള്ള ഒരു സ്കോർ ആണ് ഈ പരിശോധനയിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായ പ്രതിരോധം കാണിക്കുന്നു നിങ്ങളുടെ സ്കോറുകൾ മുപ്പത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വ്യത്യാസപ്പെടുന്നുവെങ്കിൽ ഇതിനെയാണ് ഞങ്ങൾ ഒപ്റ്റിമൽ ലെവൽ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഒരു ശരാശരി ഉർജ്ജസ്വലനായ വ്യക്തിയാണ് ധാരാളം അവസരങ്ങളുണ്ട് നിങ്ങളുടെ പുനസ്ഥാപന ശേഷി വികസിപ്പിക്കുന്നതിന് ധാരാളം സാധ്യതകളുണ്ട് അതിനാൽ ഇതിനെ പ്രാവീണ്യം അല്ലെങ്കിൽ ഞങ്ങൾ ശരാശരി എന്ന് വിളിക്കുന്നു എന്നാൽ നിങ്ങളുടെ സ്കോർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ വ്യത്യാസപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദുർബല വ്യക്തിയാണ് നിങ്ങൾ പലതിനും ഇരയാകാം നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ ഇരയാകാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരാജയം ആകാം നിങ്ങൾ സ്ഥിരത ഇല്ലാത്ത ഒരാൾ ആയേക്കാം പരാജയപ്പെട്ടേക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയില്ല ജീവിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ജീവിത വിജയങ്ങൾ നേടാനുള്ള സാധ്യത കുറവാണ് അതിനാൽ ഇത് ദുർബലതയുടെ ഫലങ്ങൾ ഉണ്ടാക്കാം പക്ഷേ നിങ്ങളുടെ സ്കോർ ഇരുപത് മുതൽ പൂജ്യം വരെ വ്യത്യാസപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഉർജ്ജസ്വലതയുടെ അപകടകരമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തകർന്നേക്കാം ഇത് ഒരു ചുവന്ന ലൈറ്റ് സിഗ്നലിലേക്ക് നയിക്കുന്ന സമ്മർദ്ദകരമായ അവസ്ഥ ആണെന്ന് അറിയുക നിങ്ങൾ തകരും ഒരു ചുവന്ന സിഗ്നൽ ഉണ്ടെങ്കിൽ അപകടങ്ങളുടെ സാധ്യത ട്രാഫിക്കിന് മുന്നിലുള്ളത് പോലെ ഇത് റെഡ് ലൈറ്റ് സിഗ്നലുകളാണ് ഇതിനെ ജാഗ്രത എന്ന് വിളിക്കുന്നു അതിനാൽ പുനസ്ഥാപനം വികസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾക്ക് ഇത് സന്ദേശം നൽകുന്നു ഞങ്ങൾ റെസീലിയെൻസ് ഫ്രെയിംവർക് resilience framework സങ്കൽപ്പിക്കുന്നില്ല ഇത് വ്യക്തിഗത ഉർജ്ജസ്വലതയോ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായ പുനസ്ഥാപനം എന്ന് വിളിക്കുന്നതോ ആകാം അതിനാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തതിനെ വ്യക്തിപരമായ പുനസ്ഥാപനം എന്ന് വിളിക്കുന്നു ഇന്റർപർസണൽ റെസീലിയെൻസ് എന്നും ഐപി ഓർഗനൈസേഷണൽ റെസീലിയെൻസ് എന്ന് വിളിക്കപ്പെടുന്നു വാസ്തവത്തിൽ ഞങ്ങൾ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു ഇത് അടുത്തിടെ റോത്തിലേർസ് ഹാൻഡ്ബുക് ഓഫ് സൈക്കോളജിക്കൽ റെസീലിയെൻസ് എന്നതിൽ വന്നു ഇത് നിങ്ങൾക്കറിയാവുന്ന ടെയ്ലർ ഫ്രാൻസിസ് 2016 ൽ പ്രസിദ്ധീകരിച്ചു ദില്ലിയിലെ ഡിഐപിആറിലെ പ്രശസ്ത ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ഡിഫൻസ് സൈക്കോളജിസ്റ്റ് ഉപേഷ് കുമാറാണ് പുസ്തകത്തിന്റെ എഡിറ്റർ കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിനിടെ പ്രൊഫസർ കുമാർ ആത്മഹത്യ തടയൽ വൈലി ഹാൻഡ് ബുക്ക് ഓഫ് പേഴ്സണാലിറ്റി പുസ്തകം എന്നിങ്ങനെ വിവിധങ്ങളായ മനശാസ്ത്ര ഗവേഷണത്തിന്റെ അത്ഭുതകരമായ അഞ്ച് കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒത്തുതീർപ്പ് എന്ന ആശയത്തിൽ താൽപ്പര്യമുള്ള എല്ലാ വായനക്കാരും ഈ പുസ്തകം വായിച്ചിരിക്കണം ഉപേഷ് കുമാറിന്റെ വൈലി ഹാൻഡ് ബുക്ക് ഓഫ് പേഴ്സണാലിറ്റി മുപ്പതിലധികം അന്തർദ്ദേശീയ എഴുത്തുകാർ അവരുടെ സംഭാവനകൾ നൽകിയുട്ടുണ്ട് ഹാൻഡ്ബുക്ക് ഓഫ് സൈക്കോളജിക്കൽ റെസീലിയെൻസ് ലോകമെമ്പാടുമുള്ള ബുദ്ധിജീവികൾക്കിടയിൽ പരക്കെ വിലമതിക്കപ്പെടുന്ന ഒന്നാണ് വൈലി ഹാൻഡ് ബുക്ക് ഓഫ് പേഴ്സണാലിറ്റിയിലും അധ്യായങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് സൈക്കോളജിക്കൽ റെസീലിയെൻസ് എന്ന ഹാൻഡ്ബുക്കിൽ ഞാൻ ഒരു അധ്യായം പ്രസിദ്ധീകരിച്ചു ഓർഗനൈസേഷണൽ റെസീലിയെൻസ് കെട്ടിപ്പടുക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ മനശാസ്ത്രപരമായ റെസീലിയെൻസ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെയെല്ലാം സംബന്ധിച്ചു ഉദാഹരണമായി പറഞ്ഞാൽ പേർസണൽ റെസീലിയെൻസ് അതിന്റെ മുൻപിൽ വരുന്നത് എന്തൊക്കെയാണ് ഒരു വ്യക്തി പ്രത്യാശയുള്ളവനായിരിക്കണം ശ്രദ്ധേയമായ പാരിസ്ഥിതിക പിന്തുണ വിദ്യാഭ്യാസ പിന്തുണ സാമൂഹിക പിന്തുണ മുതലായവയാണ് ശക്തമായ സാമൂഹിക പിന്തുണയും ഉയർന്ന ആന്തരിക പിന്തുണയും ആയിരിക്കണം ആത്മവിശ്വാസം ആത്മവിശ്വാസം ഒരാളുടെ നിറവിൽ നിന്ന് തന്നെ വേണം വരുവാൻ അതിനാൽ ഈ ആട്രിബ്യൂട്ടുകൾ വ്യക്തികൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഇത് ഒരാളിൽ ശുഭാപ്തി വിശ്വാസവും വ്യക്തിപരമായ റെസീലിയൻസും തീർച്ചയായും വളർത്തും ശരി ഇത് EI യെക്കുറിച്ചുള്ള ചുരുക്കമാണ് ഇനി തിരികെ വരുമ്പോൾ റെസീലിയെൻസ് എന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് EI കഴിവുകളെക്കുറിച്ചും EQ സംബന്ധമായി ഉള്ള ഗുണങ്ങളെക്കുറിച്ചും കൂടുതൽ ചർച്ച ചെയ്യും വളരെ നന്ദി